ടെയിലിന്റെ മൊഡ്യൂൾ 3 ലേക്ക് സ്വാഗതം ഇത് ടെയിലിന്റെ രണ്ടാമത്തെ മൊഡ്യൂളിന്റെ തുടർച്ചയാണ് ടെയിൽ മൊഡ്യൂൾ 2 മൊഡ്യൂൾ 1 ന്റെ തന്നെ തുടർച്ചയാണ് TALE മൊഡ്യൂൾ രണ്ടിൽ ADDIE മോഡൽ ഉപയോഗിച്ച് ഒരു കോഴ്സ് എങ്ങിനെ രൂപകൽപന ചെയ്യാം എന്ന് നമ്മൾ കണ്ടു വിശകലനം analysis രൂപകൽപ്പന design വികസനം development പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക implement വിലയിരുത്തുക evaluate എന്നിവയെ പ്രതിനിധീകരിക്കുന്ന വളരെ സാധാരണ മോഡലാണ് ADDIE മോഡൽ ഈ ഘട്ടങ്ങളിലെ ഓരോ ഉപ പ്രോസസ്സുകളും തിരഞ്ഞെടുക്കപ്പെടുന്നത് എ കോഴ്സിന്റെ എൻബിഎ ആവശ്യകതകൾക്ക് അനുസരിച്ചാണ് നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷൻ വ്യക്തമാക്കിയ ആവശ്യകതകളോടെ നിങ്ങൾക്ക് തുടക്കത്തിൽ തന്നെ ഒരു കോഴ്സ് രൂപകൽപ്പന ചെയ്യാൻ കഴിയും ഇതുവരെ ആളുകൾ ചെയ്യുന്നത് അവർ സ്വന്തം രീതിയിൽ കോഴ്സ് രൂപകൽപ്പന ചെയ്യുകയായിരുന്നു വലിയതോതിൽ അത് ശരിക്കും ബോർഡ് ഓഫ് സ്റ്റഡീസ് നൽകുന്ന വിഷയങ്ങളുടെ ഒരു പട്ടികയിൽ നിന്നും വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് അവയെ എങ്ങിനെ എൻബിഎ ആവശ്യകതകൾക്ക് അനുസരിച്ച് ചെയ്യാം എന്ന് നോക്കുന്നു നിങ്ങൾക്ക് ഒരു കോഴ്സ് രൂപകൽപ്പന ചെയ്യാനുള്ള ചോയ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ADDIE ഫ്രെയിംവർക്ക് ഉപയോഗിക്കാനും എൻബിഎ ആവശ്യകതകൾക്ക് അനുസരിച്ച് കോഴ്സ് രൂപകൽപ്പന ചെയ്യാനും കഴിയും അതായത് കോഴ്സിന്റെ ഡിസൈൻ കോഴ്സ് എടുക്കേണ്ട വിധം എന്നിവ ഇതെല്ലാം ADDIE യുടെ 5 ഘട്ടങ്ങളിലൂടെ നമ്മൾ കണ്ടു എങ്ങിനെ അധ്യയനം നടത്താം എന്നതിനെ പറ്റി മൊഡ്യൂൾ 3യിൽ നോക്കാം കോഴ്സ് എങ്ങനെ രൂപകൽപ്പന ചെയ്യാമെന്നും കോഴ്സ് ഔട്ട്കം എങ്ങനെ എഴുതാമെന്നും പഠിച്ചു ടെയിൽ മൊഡ്യൂൾ 1 ൽ പഠിച്ചു ഇപ്പോൾ നമുക്ക് എങ്ങനെ അധ്യയനം നടത്താമെന്ന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു ഈ യൂണിറ്റിൽ അധ്യയനത്തിന്റെ സ്വഭാവവും ഘടനയും മനസിലാക്കാൻ നമുക്ക് ശ്രമിക്കാം എന്താണ് അധ്യാപനം എന്താണ് അതിന്റെ സ്വഭാവം അതിന്റെ ഘടന എന്താണെന്നും നമ്മൾ നിർവചിക്കേണ്ടതുണ്ട് ഇപ്പോൾ ആദ്യം വ്യക്തമായിരിക്കേണ്ട കാര്യംഅദ്ധ്യാപനത്തിന് ഒരു തനതായ ശൈലി എന്നൊന്നില്ല നമ്മുടെ പക്കലുള്ള അറിവിനെ അടിസ്ഥാനമാക്കി ഇത് ഒഴിവാക്കാൻ പറ്റില്ല ആളുകൾക്ക് അവരുടെ സ്വന്തം അറിവ് കെട്ടിപ്പടുക്കുന്നതിലൂടെ മാത്രമേ പഠിക്കാൻ കഴിയൂ നിങ്ങളുടെ അറിവ് നിങ്ങൾ വികസിപ്പിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരേയൊരു മാർഗ്ഗം ചോദിക്കാൻ സാധ്യതയുള്ള പരമാവധി ചോദ്യങ്ങളുടെ ഉത്തരം ഓർമിക്കുക എന്നതാണ് അതിനെയാണ് നമ്മൾ റോട്ട് ലേണിംഗ് എന്ന് വിളിക്കുന്നത് നിർഭാഗ്യവശാൽഎല്ലാ പരീക്ഷകൾ അല്ലെങ്കിൽ മത്സരപരീക്ഷകൾ പഠനത്തെ റോട്ട് ലേർണിംഗ് ആയി മാറ്റിയിരിക്കുന്നു എന്നാൽ നിങ്ങൾക്ക് ആത്മാർത്ഥമായി പഠിക്കണമെങ്കിൽ അതായത് നിങ്ങൾക്ക് പരിചിതമല്ലാത്ത സാഹചര്യങ്ങളിൽ ആ അറിവ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും നിങ്ങളുടെ അറിവ് പ്രയോഗിക്കാനോ പുതിയ സാഹചര്യങ്ങളിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം അറിവ് വർധിപ്പിക്കേണ്ടതുണ്ട് സ്വന്തം അറിവ് കെട്ടിപ്പടുക്കുന്നതിന് പഠിതാക്കൾ പഠിക്കേണ്ട മെറ്റീരിയലിനെ സജീവമായി സമീപിക്കേണ്ടത് ആവശ്യമാണ് പഠനം നിഷ്ക്രിയമായി സംഭവിക്ക്കേണ്ട ഒന്നല്ല അതിനർത്ഥം വെറുതെ കേട്ടതു കൊണ്ട് പഠനം സംഭവിക്കില്ല ഏത് രീതിയിലും പഠിക്കേണ്ട മെറ്റീരിയൽ നമ്മൾ ഉപയോഗിക്കണം അത് വിഷയത്തിന്റെ സ്വഭാവത്തെ ആശ്രയിച്ചിരിക്കുന്നു അധ്യാപനം എന്നാൽ പഠിതാവിന് ശരിക്കും പഠിക്കാനുള്ള മെറ്റീരിയൽ എങ്ങനെ ഉപയോഗിക്കാം എന്നതിനുള്ള നിർദേശങ്ങൾ നൽകൽ ആണ് സൃഷ്ടിപരതയുടെ പ്രധാന സിദ്ധാന്തമാണിത് ടെയിൽ മൊഡ്യൂൾ 1 കാണുക ഓരോ പഠിതാവും സ്വന്തം അറിവ് നിർമ്മിക്കുകയാണ് എന്തെങ്കിലും കൈമാറ്റം ചെയ്യാനും അത് ആരുടെയെങ്കിലും തലച്ചോറിന്റെ ദീർഘകാല മെമ്മറിയിൽ സ്ഥിരമായി സംഭരിക്കാനും കഴിയുന്ന ഒന്നല്ല അറിവ് ഓരോ വ്യക്തിയും സ്വന്തം അറിവ് വികസിപ്പിക്കേണ്ടതുണ്ട് പഠിതാവിന് ആവശ്യമായ അറിവ് കഴിവുകൾ മനോഭാവങ്ങൾ എന്നിവയെ ലേർണിംഗ് ഔട്ട് കം എന്ന് വിളിക്കുന്നു നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളിൽ നിന്ന് ആരംഭിക്കുകയും അവയെ ലേർണിംഗ് ഔട്ട് കം ആയി പ്രസ്താവിക്കുകയും ചെയ്യുന്നു കൂടാതെ അധ്യാപനം എന്നാൽ എല്ലാ പഠിതാക്കൾക്കും അവരുടെ സ്വന്തം അറിവ് വർധിപ്പിക്കാൻ കഴിയുന്ന ഒന്നായിരിക്കണം "അധ്യാപനത്തിന്റെ ഉദ്ദേശ്യം ആളുകളെ പഠിക്കാൻ സഹായിക്കുക എന്നതാണ്" ഇത് വളരെ ലളിതമായ ഒരു പ്രസ്താവനയാണ് അതുകൊണ്ടാണ് ആരെയെങ്കിലും അധ്യാപകൻ എന്ന് വിളിക്കുന്നതിനുപകരംനമ്മൾ അവനെ അവളെ ഒരു ഇൻസ്ട്രക്ടർ എന്ന് വിളിക്കുന്നത് ഇൻസ്ട്രക്ടർ എന്ന പദം ചില അധ്യാപകർക്ക് രസകരമായി തോന്നില്ല കാരണം ഇൻസ്ട്രക്ഷൻ ഒരു താഴ്ന്ന നിലയിലുള്ള പ്രക്രിയയാണെന്ന് അവർ കരുതുന്നു എല്ലാ അധ്യാപകരും ക്ലാസ് മുറിയിൽ ഇൻസ്ട്രക്ഷൻസ് നൽകുന്നു നിർദേശങ്ങളുടെ ഉദ്ദേശ്യം എന്താണ് ആളുകളെ പഠിക്കാൻ സഹായിക്കുന്നതിനാണിത് അറിവിന്റെ നിർമ്മാണമാണ് പഠിതാവ് ചെയ്യുന്നതെങ്കിൽ ടീച്ചർ ചെയ്യുന്നത് ആ നിർമ്മാണത്തെ പരിപോഷിപ്പിക്കുകയാണോ ധാരാളം കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് കൊണ്ട് വിദ്യാർത്ഥി ഒന്നും പഠിക്കില്ല അതിനാൽഅധ്യാപകരുടെ പ്രധാന ദൌത്യം പഠിതാക്കളുടെ അറിവിന്റെ നിർമ്മാണം എങ്ങനെ വേഗത്തിലാക്ക്കാം എന്നതാണ് തീർച്ചയായും വെല്ലുവിളി ഉയർത്തുന്നത് ഓരോ പഠിതാവും മറ്റൊന്നിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നതാണ് ഒരേ രീതികൾ ഒരേ ടെക്നിക്കുകൾ എല്ലാവർക്കും ഒരുപോലെ ഗുണകരമാകില്ല പഠിതാവ് അറിവിനെ പരിപോഷിപ്പിക്കുന്നതിനെ ഇൻസ്ട്രക്ഷൻ എന്ന് വിളിക്കുന്നു അതാണ് നമ്മൾ നമ്മൾ അനൌപചാരികമായി പറഞ്ഞത് ഔപചാരിക രീതിയിൽ പറഞ്ഞാൽ ഒരു പഠന ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള മനഃപൂർവ്വം ചെയ്തു നൽകുന്ന സൌകര്യമാണ് ഇൻസ്ട്രക്ഷൻ പഠന ലക്ഷ്യം എന്താണ് ഒന്നുകിൽ അത് യോഗ്യത എന്നോ അല്ലെങ്കിൽ കോഴ്സ് ഔട്ട് കം എന്നോ അറിയപ്പെടുന്നുയോഗ്യത കോഴ്സ് ഔട്ട് കം ന്റെ ഒരു ചെറിയ ഘടകമാണ് ചിലപ്പോൾ ഔട്ട് കം എന്നതിന് പ്രത്യേക യോഗ്യത ഉണ്ടാകണം എന്നില്ല അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരണവും ഉണ്ടാകില്ല അതുകൊണ്ടാണ് പഠന ലക്ഷ്യം എന്നത് ഒന്നുകിൽ ഒരു യോഗ്യത അല്ലെങ്കിൽ ഫലം ആകുന്നത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഉദ്ദേശിച്ച ചില ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പഠന പ്രവർത്തനങ്ങളുടെയും വ്യവസ്ഥകളുടെയും മനപൂർവമായ ക്രമീകരണമാണിത് പഠന പ്രവർത്തനങ്ങളുടെ മനപൂർവമായ ക്രമീകരണമാണിത് എന്താണ് പഠന പ്രവർത്തനങ്ങൾ പഠന പ്രവർത്തനം എന്നാൽ ഒരു പ്രഭാഷണം ശ്രവിക്കുക ഒരു പ്രശ്നം പരിഹരിക്കുക അധ്യാപകന്റെ മേൽനോട്ടത്തിൽ രണ്ടുപേർ എന്തെങ്കിലും ചർച്ചചെയ്യുക ഒരു ഫീൽഡ് പരീക്ഷണം തുടങ്ങിയവ ആകാം നിരവധി പഠന പ്രവർത്തനങ്ങൾ ഉണ്ട് അധ്യാപകന് അവൻ അവൾ ആഗ്രഹിക്കുന്ന പഠന പ്രവർത്തനങ്ങളും അവയുടെ ക്രമവും തിരഞ്ഞെടുക്കേണ്ടതുണ്ട് പഠന പ്രവർത്തനങ്ങളുടെയും വ്യവസ്ഥകളുടെയും മനപൂർവമായ ക്രമീകരണം നിബന്ധനകൾ പ്രസക്തമല്ല കാരണം അത് അവർക്കുള്ള അവസ്ഥയെയും ക്ലാസ് റൂം ക്രമീകരണത്തെയും ആശ്രയിച്ചിരിക്കുന്നു ഒരു പഠന ഫലം കോഴ്സ് ഫലം കഴിവ് ചില കോഴ്സ് ഫലങ്ങൾക്ക് കീഴിലുള്ള കഴിവ് എന്നിങ്ങനെയുള്ള ഏതെങ്കിലും ഉദ്ദേശ ലക്ഷ്യത്തെ കൈവരിക്കുന്നതിന് പ്രോത്സാഹിപ്പിക്കുക ഇപ്പോഴും ഓർക്കുക "പഠിപ്പിക്കൽ ഒരു അറിയാവുന്ന പഠന ലക്ഷ്യത്തിലേക്ക് പഠിതാക്കൾക്ക് എത്താനുള്ള സൌകര്യമൊരുക്കുന്നു" ഇൻസ്ട്രക്ഷൻനിർവചിക്കാനുള്ള ഒരു ലളിതമായ മാർഗമാണിത് ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസ് കൂടുതലും ലെക്ച്ചറിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് 90 ശതമാനത്തിലധികം സാഹചര്യങ്ങളിലും ക്ലാസ് മുറികളിലും ലെക്ച്ചറിംഗ് നടക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ഈ മോഡിലേക്ക് പ്രവേശിച്ചത് കാരണം നമ്മുടെ അധ്യാപകർ പിന്തുടർന്ന രീതി നമ്മളും തുടരുന്നു നമ്മുടെയെല്ലാം പ്രൈമറി സ്കൂൾ അല്ലെങ്കിൽ സെക്കണ്ടറി സ്കൂൾ അല്ലെങ്കിൽ നമ്മൾ പഠിച്ച കോളേജുകളിൽ പോലും അദ്ധ്യാപകർ പിന്തുടർന്ന രീതി ലെക്ച്ചറിങ് മെത്തേഡ് ആണ് ലെക്ച്ചറിങ് മെത്തേഡ് ആണ് ഒരേയൊരു പോംവഴി എന്ന് കരുതി നമ്മളും അത് പിന്തുടർന്ന് വരുന്നു നമ്മുടെ അധ്യാപകർ നമ്മെ പഠിപ്പിച്ച രീതി വിദ്യാർത്ഥികളെന്ന നിലയിൽ നമുക്ക് ഇഷ്ടമല്ലായിരുന്നു അതെഇടയ്ക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് പ്രചോദനമായ ചില അധ്യാപകർ ഉണ്ടായിരിക്കാം അവർ സംസാരിക്കുന്ന രീതിഅവരുടെ കരുതൽ അല്ലെങ്കിൽ വിവരങ്ങൾ ഓർഗനൈസുചെയ്യുന്ന രീതി എന്നിവ നമുക്ക് ഇഷ്ടപ്പെട്ടു കാണാം പക്ഷേ ഇപ്പോഴും നമ്മുടെ നല്ല അധ്യാപകർ പോലും കൂടുതലും ലെക്ച്ചറിങ് ആണ് നടത്തുന്നത് വിദ്യാർത്ഥികളെന്ന നിലയിൽ നമുക്ക് അത് ഇഷ്ടമല്ലായിരുന്നു അതുപോലെ തന്നെ അധ്യാപകരെന്ന നിലയിൽ നമ്മൾ ഇപ്പോൾ ചെയ്യുന്നതിനെ നമ്മുടെ സ്വന്തം വിദ്യാർത്ഥികളും വിലമതിക്കാൻ സാധ്യതയില്ല അപ്പോൾ പറഞ്ഞുവരുന്നത് ലെക്ച്ചർ ടൈപ്പ് ഇൻസ്ട്രക്ഷൻസ്സിന് പകരം ബദൽ മാർഗങ്ങൾ തേടണം ഈ മൊഡ്യൂളിൽ നമ്മൾ ലെക്ച്ചറിങ് മാത്രം അല്ല പരിഗണിക്കുന്നത് കോഴ്സ് ഔട്കം കഴിവുകൾ ഉത്തരവാദിത്തങ്ങൾ പ്രകടനം വിലയിരുത്താൻ ഉപയോഗിക്കുന്ന മാനദണ്ഡങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ വിദ്യാർത്ഥികൾക്ക് നൽകുമ്പോൾ അവർ നന്നായി പഠിക്കുന്നു മൊഡ്യൂൾ 1 2 എന്നിവയിൽ പറഞ്ഞിട്ടുള്ളത് ഇതാണ് ആൻഡേഴ്സൺ ബ്ലൂം ടാക്സോണമി അനുസരിച്ച് കോഴ്സ് ഔട്ട്കം എങ്ങനെ എഴുതാമെന്ന് മൊഡ്യൂൾ 1 ൽ കണ്ടു ഒരു കോഴ്സിന്റെ അവസാനം പഠിതാക്കൾക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താണെന്ന് അനുസരിച്ച് വേണം അസ്സെസ്സ്മെന്റ് നടത്താൻ അസ്സെസ്സ്മെന്റ് കോഴ്സ് ഔട്ട്കമ്മുമായി പൊരുത്തപ്പെടുന്നില്ലെങ്കിൽ ഉദ്ദേശിച്ച പഠനം നടക്കുന്നില്ലെന്ന് നമ്മൾ ഊന്നിപ്പറഞ്ഞു പഠനം നടക്കില്ല കാരണം അസ്സെസ്സ്മെന്റ് എങ്ങിനെയാണെന്നുള്ള അവരുടെ ധാരണ അനുസരിച്ച് മാത്രമേ വിദ്യാർത്ഥികൾ പഠിക്കുകയുള്ളൂ അസ്സെസ്സ്മെന്റ് കോഴ്സ് ഔട്ട്കംസുമായി യോജിക്കുന്നതാണെന്ന് നമ്മൾ അനുമാനിക്കാം ഇവ രണ്ടും ശ്രദ്ധിച്ചുകഴിഞ്ഞാൽഇൻസ്ട്രക്ഷൻ വിദ്യാർത്ഥിയെ യോഗ്യതനേടാൻ പ്രാപ്തനാക്കുന്നു വിദ്യാർത്ഥി നന്നായി പഠിക്കും നമ്മുടെ പ്രധാന ലക്ഷ്യം പഠിതാക്കൾക്ക് പ്രഖ്യാപിത ഔട്ട്കംസ് കൈവരിക്കാൻ സഹായിക്കുക എന്നതാണ് നമ്മൾ എങ്ങനെ ഒരു കോഴ്സ് നടത്തും നമ്മൾ കോഴ്സ് ഔട്ട്കംസ് കഴിവുകളും എഴുതുകയും പ്രഖ്യാപിത ഔട്ട്കംസ് കൈവരിക്കാൻ വിദ്യാർത്ഥിയെ സഹായിക്കുന്നതിന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയും ചെയ്യുന്നു തുടർന്ന് ഔട്ട്കംസിന്റെ അറ്റയിൻമെൻറ് അളക്കുക അസൈൻമെന്റുകളിലൂടെയും ക്ലാസ് ടെസ്റ്റുകളിലൂടെയും പലതവണ നമ്മൾ അത് ചെയ്യുന്നു ഒടുവിൽ നമ്മൾ അവസാന സെമസ്റ്റർ പരീക്ഷയും നടത്തും ഒരു സെമസ്റ്ററിൽ നമ്മൾ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുഅതോടൊപ്പം തന്നെ ഒരു കോഴ്സ് നടത്തുന്നതിന്റെ ഔട്ട്കംസിന്റെ അറ്റയിൻമെൻറ് നമ്മൾ അളക്കുന്നു ഒരു ഇൻസ്ട്രക്ഷണൽ യൂണിറ്റ് എന്താണെന്ന് നമുക്ക് പുനർനിർവചിക്കാം നമ്മൾ മൊഡ്യൂൾ 2 ൽ പറഞ്ഞതുപോലെ "ഒരു കോഴ്സിനെ അതിന്റെ കോഴ്സ് ഔട്ട്കംസിന്റെ അടിസ്ഥാനത്തിൽ വിവരിക്കുന്നു " കോഴ്സ് ഔട്ട്കംസ് വീണ്ടും കഴിവുകളിലേക്ക് എത്തിച്ചേരുന്നു നമുക്ക് ഏകദേശം 7 കോഴ്സ് ഔട്ട്കംസ് ഉണ്ടെന്നു കരുതുകഇനി കോഴ്സ് ഔട്ട്കംസിനെ കോംപീറ്റൻസി ആക്കിമാറ്റി അതായത് നമുക്ക് പറയാം നമുക്ക് 15 കഴിവുകളുണ്ട് ഒരു ഇൻസ്ട്രക്ഷണൽ യൂണിറ്റ് ഒരു യോഗ്യതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതിനർത്ഥം ഇൻസ്ട്രക്ഷണൽ യൂണിറ്റും കഴിവും പരസ്പരം കൈകോർക്കുന്നു അവ അടിസ്ഥാനപരമായി ഒന്നുതന്നെയാണ് അതിനർത്ഥം അതായതു എനിക്ക് ഒരു ഇൻസ്ട്രക്ഷണൽ യൂണിറ്റ് ലേബൽ ചെയ്യണമെങ്കിൽ ഞാൻ അത് കോംപീറ്റൻസി പ്രസ്താവന ഉപയോഗിച്ച് ലേബൽ ചെയ്യും ഒരു ഇൻസ്ട്രക്ഷണൽ യൂണിറ്റിന് 55 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ ദൈർഘ്യമുള്ള 1 മുതൽ 5 വരെ ക്ലാസ് റൂം സെഷനുകൾ ഒന്നോ അതിലധികമോ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ ലബോറട്ടറി സെഷനുകൾ ഫീൽഡ് ട്രിപ്പുകൾ തുടങ്ങിയവ ഉണ്ടായിരിക്കും ഒരു ഇൻസ്ട്രക്ഷണൽ യൂണിറ്റിൽ 1 മുതൽ 5 വരെ ക്ലാസ് റൂം സെഷനുകളും കൂടാതെ 1 അല്ലെങ്കിൽ കൂടുതൽ 2 മണിക്കൂർ ലബോറട്ടറി സെഷനുകളും അടങ്ങിയിരിക്കും ചില ഇൻസ്ട്രക്ഷണൽ യൂണിറ്റിന് 1 മണിക്കൂർ മാത്രമേ ഉണ്ടാകൂ ചിലതിന് 2 ഉണ്ടായിരിക്കാം ചിലതിന് 5 വരെ ഉണ്ടായിരിക്കാം എന്നാൽ വളരെ അപൂർവമായി ഒരു ഇൻസ്ട്രക്ഷണൽ യൂണിറ്റിൽ 5 ക്ലാസ് റൂം സെഷനുകൾക്കപ്പുറം പോകും ഇൻസ്ട്രക്ഷൻസ് എങ്ങിനെ നൽകണം എന്നത് നമുക്ക് നിർദേശിക്കാൻ മാത്രമേ കഴിയു ഇതിനർത്ഥം "നിർദ്ദേശം ഇങ്ങനെയാണ് അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കണം" എന്ന് നമുക്ക് പറയാം മറ്റൊരു വ്യക്തി ഇൻസ്ട്രക്ഷൻ മറ്റൊരു രീതിയിൽ പുന ക്രമീകരിക്കാൻ ആഗ്രഹിച്ചേക്കാം നമ്മൾ നിർദ്ദേശിക്കുന്നു ഇത് സ്ഥാപിതമായ ചില സിദ്ധാന്തങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞതുപോലെയല്ല അല്ലെങ്കിൽ ഇത് മാത്രമല്ല ഇൻസ്ട്രകഷൻ നടത്താനുള്ള ഒരേയൊരു മാർഗം ഒരു അദ്ധ്യാപകനെന്ന നിലയിൽ വിദ്യാർത്ഥികളുടെ പഠനത്തിന് ഏറ്റവും അനുയോജ്യമെന്ന് ഞാൻ കരുതുന്ന രീതിയിൽ പഠന പ്രവർത്തനങ്ങളുടെ മനപൂർവമായ ഒരു ക്രമീകരണം നമ്മൾ തിരഞ്ഞെടുക്കുന്നു അത് ഒരു നിർദേശം ആണ്അത് തനതായ ഒന്നാകണം എന്നില്ല ഇൻസ്ട്രക്ഷൻസുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ വളരെ വ്യത്യസ്തമാണ് ഉദാഹരണത്തിന് സാഹചര്യങ്ങൾ നിർണ്ണയിക്കുന്നത് കോഴ്സിന്റെ സ്വഭാവമാണ് ഒരു മാത്തമാറ്റിക്സ് കോഴ്സ് എഞ്ചിനീയർമാർക്കുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ഫിസിക്സിലെ ഒരു കോഴ്സ് മെക്കാനിക്കൽ ഡ്രോയിംഗിൽ ഒരു കോഴ്സ് അല്ലെങ്കിൽ ഒരു ഇലക്ട്രോ മാഗ്നെറ്റിക് തിയറി എന്നിവയെല്ലാം അവയുടെ സ്വഭാവത്തിൽ വളരെ വ്യത്യസ്തമാണ് അവയിലെ പാഠഭാഗങ്ങളും പഠിക്കാനുള്ള വഴിയും എല്ലാം വ്യത്യസ്തമാണ് സാഹചര്യങ്ങൾ വ്യത്യസ്തവും അത് കോഴ്സിന്റെ സ്വഭാവമനുസരിച്ച് നിർണ്ണയിക്കപ്പെടുന്നതുമാണ് വ്യത്യസ്ത കോഴ്സുകൾക്ക് വ്യത്യസ്ത അധ്യാപകർ ഉണ്ടാകും ഓരോ അധ്യാപകനും അനുഭവത്തെയും കഴിവുകളെയും അടിസ്ഥാനമാക്കി കോഴ്സിനെ അവരുടേതായ രീതിയിൽ പഠിപ്പിക്കും എല്ലാ സ്ഥാപനങ്ങളിലും വിദ്യാർത്ഥികൾ ഒരുപോലെയല്ല അല്പം മികച്ച റാങ്കുള്ള കോളേജുകളിൽ വളരെ നല്ല വിദ്യാർത്ഥികളുണ്ടായിരിക്കാം എന്നാൽ മറ്റ് കോളേജുകളിൽ നിങ്ങൾക്ക് താരതമ്യേന കുറഞ്ഞ വൈജ്ഞാനിക കഴിവുകളും വ്യത്യസ്ത പ്രചോദന നിലകളുമുള്ള ആളുകൾ ഉണ്ടായിരിക്കാം ഉദാഹരണത്തിന് ഞാൻ ഒരു മൂന്നാം വർഷ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് എടുക്കുകയും രാജ്യത്തുടനീളമുള്ള വിദ്യാർത്ഥികളെയും വിവിധ സ്ഥാപനങ്ങളെയും നോക്കുകയും ചെയ്താൽ അവർ ഒന്നാണെന്ന് പറയാൻ കഴിയില്ല അതിനാൽനിങ്ങൾക്ക് എല്ലാത്തരം വിദ്യാർത്ഥികളോടും ഒരേ അധ്യാപന രീതി സ്വീകരിക്കാൻ കഴിയില്ല വിദ്യാർത്ഥികളുടെ സ്വഭാവം അനുസരിച്ച് സാഹചര്യം മാറും അതിനുമപ്പുറം ഉന്നത വിദ്യാഭ്യാസം വളരെ സ്വകാര്യവൽക്കരിക്കപ്പെട്ടതിനാൽ ഓരോ കോളേജിനും അതിന്റേതായ മാനേജ്മെൻറ് ഉണ്ട് വ്യത്യസ്ത മാനേജുമെന്റുകൾ സ്ഥാപനത്തെ വ്യത്യസ്ത രീതികളിൽ കൈകാര്യം ചെയ്യുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം എല്ലാ മാനേജുമെന്റുകളും എഞ്ചിനീയറിംഗ് കോളേജിനെ ഒരേ രീതിയിൽ നോക്കില്ല ചിലതിന് ഇത് തീർത്തും ബിസിനസ്സ് ആണ് ചിലർ കരുതും എങ്ങിനെയെങ്കിലും ഒന്ന് പ്രവർത്തിക്കുന്നത് തികച്ചും തൃപ്തികരമാണ് അവർക്കു മെച്ചപ്പെടുത്താൻ താൽപ്പര്യമില്ലഎന്നാൽ ചിലർ എല്ലാം മൈക്രോ മാനേജുചെയ്യാൻ ആഗ്രഹിക്കുന്നു കൂടാതെ ചില മാനേജുമെന്റുകൾ ഒരു കോഴ്സ് എങ്ങിനെ ആണോ പഠിപ്പിക്കേണ്ടത് അതിനുതകുന്ന സൌകര്യങ്ങൾ ഉറപ്പു വരുത്തുന്നു കോഴ്സുകൾ നിലവിൽ വരുന്ന സിസ്റ്റം വീണ്ടും വളരെ വ്യത്യസ്തമാണ് ഒരു പരിധിവരെ സാഹചര്യങ്ങൾ വ്യത്യസ്തവും തികച്ചും വൈവിധ്യപൂർണ്ണവുമാണ് അടുത്ത യൂണിറ്റിൽ കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് കാണാം ഇപ്പോൾ തന്നെ ധാരാളം ഇൻസ്ട്രക്ഷൻ സമീപനങ്ങളുണ്ട് എന്നിട്ടും ആളുകൾ സംഭാവന ചെയ്യുന്നു അതായത് ചോയ്സുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു സാങ്കേതികവിദ്യകളും തുടർച്ചയായി മെച്ചപ്പെടുന്നു സാങ്കേതികവിദ്യകൾക്കൊപ്പം നിങ്ങൾക്കുള്ള ചോയ്സ് കൂടുതൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ലഭ്യമായതും സാധ്യമായതും എന്താണെന്ന് നോക്കിക്കൊണ്ട് അധ്യാപകൻ ഒരു തിരഞ്ഞെടുപ്പ് നടത്തേണ്ടതുണ്ട് നിർഭാഗ്യവശാൽ അല്ലെങ്കിൽ ആകസ്മികമായി അധ്യാപകർ ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കുന്നത് ലെക്ച്ചറിങ് ആണ് അതുകൊണ്ട് നിങ്ങളുടെ കോഴ്സിനായി മറ്റുള്ള ഇൻസ്ട്രക്ഷണൽ അപ്പ്രോച്ച്സ് കൂടിപരിഗണിക്കാൻ നമ്മൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു

ഇൻസ്ട്രക്ഷന്റെ സാഹചര്യങ്ങളും സമീപനവും പരിഗണിക്കാതെ മാറ്റിനിർത്തിയാൽ ഇൻസ്ട്രക്ഷൻ എങ്ങനെ ആയിരിക്കണം ഇത് ആദ്യം ഫലപ്രദമായിരിക്കണം ഫലപ്രദമായ എന്നാൽ പഠിതാക്കൾ ഉദ്ദേശിച്ച പഠന ഫലം കൈവരിക്കേണ്ടതുണ്ട് ഉദാഹരണത്തിന് ഇവിടെ ഒരു ഇൻസ്ട്രക്ഷണൽ യൂണിറ്റിനെ എടുത്താൽ ഇൻസ്ട്രക്ഷണൽ യൂണിറ്റിന്റെ അവസാനത്തിൽ വിദ്യാർത്ഥിക്ക് സ്വന്തം അറിവ് നേടാൻ കഴിയണം അത് പ്രഖ്യാപിത കഴിവ് നേടാൻ സഹായിക്കും ഓരോ ഇൻസ്ട്രക്ഷൻ യൂണിറ്റിന്റെയും ലക്ഷ്യം ഒരു കഴിവാണ് ഇത് ഫലപ്രദമല്ലെങ്കിൽ അത് പ്രായോഗികമായി ഉപയോഗശൂന്യമാണ് അപ്പോൾ അത് ഇടപഴകുന്നതായിരിക്കണം അതിനർത്ഥം പഠിക്കാൻ അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ സജീവമായി ഇടപഴകാൻ പഠിതാക്കളെ പ്രാപ്തരാക്കും അവർ പുതിയ അറിവിനെ അവർ ഉപയോഗിക്കുന്നില്ലെങ്കിൽ അവർ ഉദ്ദേശിച്ച പഠന ഫലം കൈവരിക്കില്ല വിദ്യാർത്ഥികളുടെ പഠനം സുഗമമാക്കുന്നതിന് അധ്യാപകർ പഠന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയോ ക്രമീകരിക്കുകയോ ചെയ്യുന്നു വെറുതെ ശ്രവിക്കുന്നത് അറിവുമായി ഇടപഴകുന്നതായി കണക്കാക്കാൻ പറ്റില്ല തങ്ങളുടെ വിദ്യാർത്ഥികളെ അറിവിന്റെ ലോകത്തേക്ക് എങ്ങിനെ സജീവമായി കൊണ്ടുവരാം എന്നതാണ് അധ്യാപകൻ നേരിടുന്ന വെല്ലുവിളി ഏത് ഇൻസ്ട്രക്ഷൻ രീതിയോ സഹചര്യങ്ങളോ ആയാലും സൌകര്യങ്ങളുടെ ഉപയോഗത്തിൽ ഇൻസ്ട്രക്ഷൻ കാര്യക്ഷമമായിരിക്കണം കാര്യക്ഷമമാണ് എന്നാൽ ഏതെങ്കിലും ഔപചാരിക പ്രോഗ്രാമിൽ ഒരു കോഴ്സ് പഠിപ്പിക്കുമ്പോൾ അധ്യാപകന് പരിമിതമായ സമയം മാത്രമേ ലഭ്യമാകൂ ലഭ്യമായ മണിക്കൂറുകളുടെ എണ്ണം അല്ലെങ്കിൽ വിദ്യാർത്ഥി 5 മുതൽ 6 വരെ കോഴ്സുകൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ വിദ്യാർത്ഥിക്ക് എത്ര സമയമുണ്ട് ഇതൊക്കെ പരിഗണിക്കണം ഒരു സെമസ്റ്ററിൽ എല്ലാ ദിവസവും വിദ്യാർത്ഥി നിങ്ങൾക്ക് ലഭ്യമാണെന്ന് ഒരു അധ്യാപകന് അനുമാനിക്കാൻ കഴിയില്ല ലഭ്യമായ സൌകര്യങ്ങൾക്കനുസരിച്ചു ഒരാൾ ഉപയോഗിക്കുന്ന റിസോഴ്സ്സ് കുറക്കണം നിങ്ങൾക്ക് കൂടുതൽ സമയം ആവശ്യമുണ്ടെങ്കിൽ അത് കാര്യക്ഷമമല്ല ഉദാഹരണത്തിന് നിങ്ങൾ ഒരേ കാര്യം പഠിപ്പിക്കാനായി 3 മണിക്കൂറിനുപകരം 6 മണിക്കൂർ എടുക്കുകയാണെങ്കിൽ എല്ലാവറിലേക്കും പുതിയ അറിവ് എത്തിക്കാനും ഫലപ്രദമാക്കാൻ ശ്രമിക്കാനും നിങ്ങൾക്ക് കഴിയും പക്ഷേ അതൊരിക്കലും കാര്യക്ഷമമായിരിക്കില്ല E3 ഇൻസ്ട്രക്ഷൻ ഇഫക്ടിവ് എൻഗേജിങ് എഫിഷ്യന്റ് ഫലപ്രദവും ആകർഷകവും കാര്യക്ഷമവുമാണ് മൂന്നും ഒരേ സമയം അഭിസംബോധന ചെയ്യേണ്ടതുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് അവയിലൊന്ന് ത്യജിക്കേണ്ടി വരും ഉദാഹരണത്തിന് ബുദ്ധിമുട്ടുള്ള ഒരു ആശയത്തിന് കൂടുതൽ സമയം ആവശ്യമായി വന്നേക്കാം എനിക്ക് അത് കാര്യക്ഷമമാക്കാൻ കഴിഞ്ഞേക്കില്ല പക്ഷേ അത് ഫലപ്രദമല്ലെങ്കിൽ അത് കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല ഇൻസ്ട്രക്ഷൻസിന്റെ വിവിധ വശങ്ങളെ തരംതിരിക്കാൻ നോക്കാം തരംതിരിക്കാനുള്ള ആത്മനിഷ്ഠമായ മാർഗം ഇൻസ്ട്രക്ഷൻസിനു രണ്ട് നിർമ്മിതികളുണ്ട് ഒന്ന് ഇൻസ്ട്രക്ഷണൽ സാഹചര്യങ്ങളും മറ്റൊന്ന് ഇൻസ്ട്രക്ഷണൽ സമീപനങ്ങളുമാണ് ഓരോന്നും വിശദീകരിക്കാം ഇൻസ്ട്രക്ഷണൽ സാഹചര്യങ്ങൾ മൂല്യങ്ങളും വ്യവസ്ഥകളും ഇതിന്റെ സ്വഭാവ സവിശേഷതകളാണ് മൂല്യങ്ങൾ എന്നാൽ പഠന ലക്ഷ്യങ്ങളാണ് എനിക്ക് എന്റെ പഠന ലക്ഷ്യം തിരഞ്ഞെടുക്കാനാകും ഉദാഹരണത്തിന് പഠിതാവ് സംവേദനക്ഷമത നേടുക മാത്രമല്ല കൂടാതെ സമൂഹത്തിൽ സാങ്കേതികവിദ്യയുടെ സ്വാധീനത്തെക്കുറിച്ച് ഒരു തോന്നൽ അല്ലെങ്കിൽ ഉത്കണ്ഠ ഉണ്ടാകാം പക്ഷെ എനിക്ക് അത്തരമൊരു പഠന ലക്ഷ്യം ഇല്ലായിരിക്കാം പഠന ലക്ഷ്യം തിരഞ്ഞെടുക്കുന്നത് ഇൻസ്ട്രക്ഷണൽ സാഹചര്യങ്ങളിൽ ഒരു മാറ്റമുണ്ടാക്കും അപ്പോൾ എന്താണ് മുൻഗണനകൾ എന്താണ് ഉപയോഗിക്കുന്ന രീതികൾ ആർക്കാണ് അധികാരം ആരാണ് തീരുമാനിക്കുന്നത് നമ്മുടെ സ്വകാര്യവൽക്കരിച്ച ചെറിയ ടയർ 3 തരം എഞ്ചിനീയറിംഗ് കോളേജുകളിൽ അധികാരമുള്ളവർ ആണ് പ്രധാന പങ്ക് വഹിക്കുന്നതെന്ന് തോന്നുന്നു ഇൻസ്ട്രക്ഷണൽ സാഹചര്യങ്ങൾക്കും വ്യവസ്ഥകൾ ഉണ്ട് നിബന്ധനകളിൽ ഉള്ളടക്കം അതായത് പഠന വിഷയത്തിന്റെ മെറ്റീരിയലിന്റെ സ്വഭാവം പഠിതാക്കൾ തന്നെ പഠിതാക്കൾ എല്ലാ സ്ഥാപനങ്ങളിലും ഒരേപോലെയല്ല കൂടാതെ നിങ്ങൾക്കുള്ള പഠന അന്തരീക്ഷം എന്നിവ ഉൾപ്പെടുന്നു മൂല്യങ്ങൾ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷണൽ സാഹചര്യങ്ങൾ മൂല്യങ്ങൾ പഠന ലക്ഷ്യങ്ങളെക്കുറിച്ചാണ് കഴിവുകളും CO സിഒകളും അല്ലാതെ മറ്റൊന്നുമല്ല ഉദാഹരണം "ബിസിനസ്സ് ആപ്ലിക്കേഷനുകളിൽ സാധാരണയായി ഉപയോഗിക്കുന്ന C പ്രോഗ്രാമുകൾ എഴുതുക " ഞാൻ ഇത്തരത്തിലുള്ള പഠന ലക്ഷ്യം എഴുതുമ്പോൾ ക്ലാസിൽ ഇതിനകം തന്നെ സോൾവ് ചെയ്ത പ്രോബ്ലം അല്ലെങ്കിൽ ചാപ്റ്റർ അവസാനം കൊടുക്കുന്ന പ്രോബ്ലം സോൾവ് ചെയ്യന്നത് പോലെയായിരിക്കില്ല ഇത് ഞാൻ എനിക്കായി വച്ചിരിക്കുന്ന പഠന ലക്ഷ്യം എന്താണ് ബിസിനസ്സ് ആപ്ലിക്കേഷനുകളിൽ സാധാരണയായി ഉപയോഗിക്കുന്ന നല്ല C പ്രോഗ്രാമുകൾ എഴുതുക അതായത് സാധാരണയായി നേരിടുന്ന ഈ ബിസിനസ്സ് ആപ്ലിക്കേഷനുകളുടെ ഒരു ലിസ്റ്റ് ഒരു അദ്ധ്യാപകൻ തയ്യാറാക്കേണ്ടതുണ്ട് തുടർന്ന് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വിദ്യാർത്ഥിയെ സഹായിക്കും നിങ്ങൾക്ക് ചില സാമ്പിൾ ചെയ്തു കാണിക്കാം പക്ഷേ വിദ്യാർത്ഥികൾക്ക് സ്വയം അവ പരിഹരിക്കാൻ കഴിയണം എന്റെ ഇൻസ്ട്രക്ഷന്റെ മാനദണ്ഡംഇൻസ്ട്രക്ഷൻ കുട്ടികളിൽ പ്രോഗ്രാമിംഗ് പ്രോബ്ലെംസ് സോൾവ് ചെയ്യാൻ ഉള്ള ആഗ്രഹം ജനിപ്പിക്കണം അതായത് കൂടുതൽ പ്രോഗ്രാമിംഗ് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വിദ്യാർത്ഥി ആവേശഭരിതനായിരിക്കണം പ്രോഗ്രാം ഷെയർ ക്രിട്ടിക് രീതി ഉപയോഗിക്കുക എന്നതാണ് അധ്യാപകൻ തിരഞ്ഞെടുത്ത രീതി അതായത് ഓരോ വിദ്യാർത്ഥിയും ഒരു പ്രോഗ്രാം സൃഷ്ടിക്കുന്നു അത് കൂട്ടുകാരുമായി പങ്കിടുന്നുകൂട്ടുകാരൻ അതിനെ വിമർശിക്കും നിങ്ങൾ ഈ രീതി ഉപയോഗിച്ചുകഴിഞ്ഞാൽ പങ്കിടാനും വിമർശിക്കാനും പരിഷ്ക്കരിക്കാനും സമയമെടുക്കും ഈ കാണാനാകുന്നതുപോലെ ഈ രീതി ഉപയോഗിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സമയമെടുക്കുംഅങ്ങിനെയെങ്കിൽ ഇത് നിങ്ങൾ പ്ലാനിങ്ങിൽ ഉൾപ്പെടുത്തണം ആർക്കാണ് അധികാരം ഒരു പ്രത്യേക ഉദാഹരണം വകുപ്പ് മേധാവി മുഖേനയുള്ള മാനേജ്മെന്റ് ഉദാഹരണത്തിന് ഞാൻ ഒരു ഐഐടിയോ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസോ എടുക്കുകയാണെങ്കിൽ എച്ച്ഒഡി വഴി മാനേജ്മെന്റിനെക്കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല അതിന് അധികാരമുള്ളത് ഒരു അധ്യാപകനാണ് അതേസമയം നമ്മൾ കണ്ടതോ കേട്ടതോ ആയ പല കോളേജുകളിലും എച്ച്ഒഡി വഴിയുള്ള മാനേജ്മെന്റിന് അധികാരമുണ്ട് വ്യക്തമായും അത് പിന്തുടരുന്ന ഇൻസ്ട്രക്ഷൻസിൽ വലിയ സ്വാധീനം ചെലുത്തും വ്യവസ്ഥകൾ ഉദാഹരണം "സി പ്രോഗ്രാം ഉപയോഗിച്ച് പ്രോബ്ലം പരിഹരിക്കുക" കുറഞ്ഞ സിഇടി റാങ്കിംഗ് ഉള്ള ഭൂരിഭാഗം വിദ്യാർത്ഥികളും റോട്ട് ലേർണിംഗ് ശീലിച്ചവർ ആണ് പഠന അന്തരീക്ഷം നിങ്ങൾക്ക് ഒരു ബ്ലാക്ക്ബോർഡും ചോക്ക് പീസും മാത്രമുള്ള ഒരു ക്ലാസ് റൂം അത്ര സുഖകരമായിരിക്കില്ല മറ്റേതെങ്കിലും സ്ഥലത്ത് നിങ്ങൾക്ക് എൽസിഡി പ്രൊജക്ടർ ഉണ്ടായിരിക്കാം ഒരു ചൂടുള്ള സ്ഥലത്ത് എല്ലായ്പ്പോഴും ഫാൻ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ ശബ്ദം ഉണ്ടാക്കും ടീച്ചർ പറയുന്നത് കേൾക്കാൻ ബാക്ക്ബെഞ്ചർമാർക്ക് ശരിക്കും കഴിയില്ല ഉയർന്ന വിജയശതമാനം കൈവരിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഒരു പ്രധാന ഇൻസ്ട്രക്ഷണൽ വികസന പരിമിതി അതാണ് HOD ഓർഡർ ചെയ്യുന്നത് അല്ലെങ്കിൽ മാനേജുമെന്റ് ആവശ്യപ്പെടുന്നത് നിങ്ങൾ എന്ത് ചെയ്തിട്ടായാലും നമ്മൾക്ക് ഉയർന്ന വിജയശതമാനം നേടേണ്ടതുണ്ട് ഒരു സ്വകാര്യ സർവ്വകലാശാലയായാലും അഫിലിയേറ്റഡ് കോളേജിലായാലും നിർഭാഗ്യവശാൽ അല്ലെങ്കിൽ ആകസ്മികമായി ഇത് പ്രധാന ആവശ്യകതയാണ് അതിനർത്ഥം ഇതാണ് ഇൻസ്ട്രക്ഷണൽ വികസന പരിമിതി അപ്പോൾ നിങ്ങൾക്ക് ഉയർന്ന വിജയശതമാനം ഉണ്ടെന്ന് ഞാൻ എങ്ങനെ ഉറപ്പാക്കും ഇൻസ്ട്രക്ഷണൽ രീതികൾക്കായി നമ്മൾ കുറച്ച് സമയം ചെലവഴിക്കുന്നു നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസ് നല്കാൻ അനവധി വഴികളുണ്ട്ഞാൻ എങ്ങനെ തരം തിരിക്കും ഇതുപോലെ പ്രധാന്യത്തിന്റെ ക്രമത്തിൽ ക്രമീകരിക്കാൻ നമ്മൾ ശ്രമിക്കുന്നു ഉയർന്ന നില ഇൻസ്ട്രക്ഷണൽ സമീപനവും ഏറ്റവും താഴ്ന്ന നിലയിലുള്ള ഇൻസ്ട്രക്ഷണൽ ഘടകങ്ങളും അതായത് ഒരു ഇൻസ്ട്രക്ഷണൽ രീതിക്ക് ഒരു വിധത്തിൽ നിരവധി ഇൻസ്ട്രക്ഷണൽ ഘടകങ്ങൾ ഉണ്ടായിരിക്കും ഒരു ഇൻസ്ട്രക്ഷണൽ സമീപനം വ്യത്യസ്ത ഇൻസ്ട്രക്ഷണൽ രീതികൾ ഉപയോഗിക്കും ഞാൻ എന്ത് ഇൻസ്ട്രക്ഷണൽ രീതി ഉപയോഗിക്കുന്നു അത് നമ്മൾ സ്വീകരിക്കുന്ന ഇൻസ്ട്രക്ഷണൽ സമീപനത്തിന്റെ സവിശേഷതയാണ് ഒരു ഇൻസ്ട്രക്ഷണൽ ഘടകം ഒരു ലളിതമായ ഇൻസ്ട്രക്ഷണൽ പ്രവർത്തനത്തെ പ്രതിനിധീകരിക്കുന്നു ഉദാഹരണത്തിന് വിവരങ്ങൾ ഒരു ഗ്രാഫിക് രൂപത്തിൽ അവതരിപ്പിക്കുന്നു ഒന്നുകിൽ ഞാൻ ഒരു ഗ്രാഫ് അല്ലെങ്കിൽ ടേബിൾ വരയ്ക്കുന്നു തുടർന്ന് ഞാൻ വിദ്യാർത്ഥികളോടൊപ്പം ഗ്രാഫ് വരയ്ക്കുന്നു അല്ലെങ്കിൽ ഞാൻ ഒരു പട്ടികയും ഗ്രാഫും പ്രൊജക്റ്റ് ചെയ്യുന്നു പക്ഷേ ഗ്രാഫിക് രൂപത്തിൽ വിവരങ്ങൾ അവതരിപ്പിക്കുന്നത് ഒരു ഇൻസ്ട്രക്ഷണൽ ഘടകമാണ് ഒരു ഇൻസ്ട്രക്ഷണൽ രീതി നിരവധി ഇൻസ്ട്രക്ഷണൽഘടകങ്ങൾ ഉപയോഗിക്കുന്നു കൂടാതെ ലിറ്ററേച്ചറിൽ വൈവിധ്യമാർന്ന ഇൻസ്ട്രക്ഷണൽ രീതികളുണ്ട് തീർച്ചയായും ഇത് നല്ല വാർത്തയാണ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അതെ സമയം മോശം വാർത്തയും ആണ് കാരണം നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കണം ഈ രീതികൾ സംയോജിപ്പിച്ച് ഇൻസ്ട്രക്ഷണൽ സാഹചര്യത്തിന് അനുയോജ്യമായ അനന്തമായ ക്രമമാറ്റങ്ങൾ നടത്താം ഇൻസ്ട്രക്ഷണൽ രീതികൾ എങ്ങനെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താം ഏത് സന്ദർഭത്തിലാണ് അവ ഉപയോഗിക്കുന്നത് നെറ്റിൽ ഇൻസ്ട്രക്ഷണൽ രീതികൾക്കായി നിരവധി കാര്യങ്ങൾ ലഭ്യമാണോ എന്നതിനെക്കുറിചെല്ലാം ധാരാളം ലിറ്ററേച്ചർ വിവരങ്ങളും നിലവിലുണ്ട് നിരവധി മാർഗങ്ങളുണ്ട് ഇൻസ്ട്രക്ഷണൽരീതികളെ തരംതിരിക്കുന്നതിന് മാത്രമല്ല ഏതെങ്കിലും പ്രത്യേകത ചില സന്ദർഭങ്ങളിൽ മാത്രമേ ബാധകമാകൂ എല്ലാവർക്കും ബാധകമായ ഒരു സാർവത്രിക ഇൻസ്ട്രക്ഷണൽ രീതി പോലെ ഒന്നുമില്ല ഓരോ ഘട്ടത്തിലും ഒരു ഇൻസ്ട്രക്ടർ അയാൾക്ക് മറ്റൊരാൾ നൽകുന്ന ഒരു രീതി പിന്തുടരേണ്ടതില്ല ഒരു ഇൻസ്ട്രക്ഷണൽ രീതി അവന്റെ അനുഭവം അല്ലെങ്കിൽ അവന്റെ മുൻഗണന തനിക്കുള്ള വിദ്യാർത്ഥികൾ ഇങ്ങനെയുള്ള വിഷയം കൈകാര്യം ചെയ്യുന്ന എന്നിവയൊക്കെ അനുസരിച്ച് ക്രമീകരിക്കാം നിങ്ങൾ ട്വീക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ അടിസ്ഥാനപരമായി പുതിയ ഇൻസ്ട്രക്ഷണൽ രീതി സൃഷ്ടിക്കുന്നു ഇൻസ്ട്രക്ഷൻ എന്താണ് എന്നുള്ള നമ്മുടെ അറിവിനെ അടിസ്ഥാനമാക്കിന്റെ മൊഡ്യൂൾ 3 ൽ നമ്മൾ എന്താണ് കൈകാര്യം ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം ഈ മൊഡ്യൂളിൽ ഇൻസ്ട്രക്ഷണൽ സാഹചര്യങ്ങൾ തലച്ചോറുകൾ എങ്ങനെ പഠിക്കുന്നു നല്ല പഠനത്തിനുള്ള തത്വങ്ങൾ എന്നിവ ഉൾപ്പെടെ നിരവധി കാര്യങ്ങൾ മനസിലാക്കാൻ നമ്മൾ ശ്രമിക്കുന്നു നമുക്കുള്ള ചെറിയ അറിവ് എന്തുതന്നെയായാലും തലച്ചോർ എങ്ങനെ പഠിക്കുന്നു ആ അറിവ് ഇൻസ്ട്രക്ഷനിൽ ഉപയോഗിക്കാൻ കഴിയും ഒരു ഇൻസ്ട്രക്ഷണൽ രീതിയും ഇൻസ്ട്രക്ഷണൽ സമീപനവും നടപ്പിലാക്കുന്നതിനായി ഏതൊക്കെ ഇൻസ്ട്രക്ഷണൽ ഘടകങ്ങൾ ഉപയോഗിക്കാം എന്ന് ഉദാഹരണ സഹിതം നമുക്ക് പഠിക്കാം വിപുലമായ ഫീൽഡ് വർക്കുകളിലൂടെ നമുക്ക് എവിഡൻസ് ബേസ്ഡ് ഇൻസ്ട്രക്ഷണൽ ഘടകങ്ങൾ ഉണ്ടാക്കാം ചില ഇൻസ്ട്രക്ഷണൽ ഘടകങ്ങളുടെ ഉപയോഗം പഠനത്തെ വളരെയധികം സഹായിക്കുകയും അല്ലെങ്കിൽ അറിവുമായി ഇടപഴകുന്നതിന് ഈ വിദ്യാർത്ഥിയെ വളരെയധികം സഹായിക്കുകയും ചെയ്യും സാധാരണയായി ഉപയോഗിക്കുന്ന ചില ഇൻസ്ട്രക്ഷണൽ സമീപനങ്ങളും നമ്മൾ നോക്കുന്നു മനസിലാക്കൽ രൂപകൽപ്പന മെറ്റാകോഗ്നിറ്റീവ് ലേണിംഗ് അഫക്റ്റീവ് ഡൊമെയ്ൻ സ്വയം നിയന്ത്രിത പഠനം എന്നിവയ്ക്കായി ഇൻസ്ട്രക്ഷൻസ് എങ്ങനെ ആസൂത്രണം ചെയ്യാം എന്നും നോക്കാം നമ്മൾ വിവിധ ആൻഡേഴ്സൺ ബ്ലൂം ടാക്സോണമികളെക്കുറിച്ച് സംസാരിച്ചു ഉദാഹരണത്തിന് റോട്ടെ ലേണിംഗിലല്ല ഓർമിക്കുന്നതിലല്ലകാര്യം മനസിലാകുന്നതിന് ആണ് പ്രധാന്യം ചിലപ്പോൾ ഡിസൈൻ അല്ലെങ്കിൽ ചിലപ്പോൾ മെറ്റാകോഗ്നിറ്റീവ് ലേണിംഗ് പോലുള്ള പ്രവർത്തനങ്ങൾ സൃഷ്ടിക്കാൻ എന്റെ വിദ്യാർത്ഥികളെ എങ്ങനെ പരിശീലിപ്പിക്കും ഞാൻ എങ്ങനെ അഫക്റ്റീവ് ഡൊമെയ്നെ അഭിസംബോധന ചെയ്യും കൂടാതെ എനിക്ക് സെൽഫ് റെഗുലേറ്റഡ് ലേർണിംഗ് എടുക്കാൻ കഴിയുമോ അതായത് സ്വയം നിയന്ത്രിത പഠനത്തിലൂടെ സ്വയം പരിശീലിക്കാൻ എന്റെ വിദ്യാർത്ഥിക്ക് കഴിയണം മൊഡ്യൂൾ 3 ൽ നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ ഇവയാണ് അടുത്ത യൂണിറ്റിൽ നമ്മൾ ആദ്യം ഇൻസ്ട്രക്ഷണൽ സാഹചര്യങ്ങളിലും അവയുടെ ആവശ്യകതകളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അധ്യാപകരായ നിങ്ങൾക്കെല്ലാവർക്കും ഈ പ്രശ്നങ്ങൾ പലതും അനുഭവപ്പെടുമായിരുന്നുവെന്ന് എനിക്ക് ഉറപ്പുണ്ട് മാത്രമല്ല നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന സാഹചര്യം അനുസരിച്ച് നിങ്ങളുടെ ഇൻസ്ട്രക്ഷൻസ് ആസൂത്രണം ചെയ്യുകയും വേണം തികച്ചും വ്യത്യസ്തമായ സാഹചര്യത്തിൽ ചെയ്യുന്ന മറ്റൊരാളുടെ നിർദ്ദേശം നിങ്ങൾക്ക് പിന്തുടരാനാവില്ല ഇൻസ്ട്രക്ഷണൽ സാഹചര്യങ്ങളെയും അവയുടെ ആവശ്യകതകളെയും കുറിച്ച് നന്നായി മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ഇൻസ്ട്രക്ഷൻസ് ആസൂത്രണം ചെയ്യാൻ നിങ്ങളെ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വളരെ നന്ദി